കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഒരു ശ്രേണി അടിസ്ഥാനമാക്കിയുള്ള നടപ്പാക്കൽ യൂണിയൻ ഫൈൻഡ് ഡാറ്റാ സ്ട്രക്ച്ചർ കണ്ടെത്തി അതിൽ കോൺസ്റ്റന്റ് ടൈം കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനവും m യൂണിയനുകളുടെ ഒരു ശ്രേണിയിൽ യൂണിയൻ പ്രവർത്തനം m ലോഗ് m ടൈം എടുക്കുമെന്ന് അവകാശപ്പെടാൻ ഞങ്ങൾ ഒരു അമോർട്ടൈസ്ഡ് വിശകലനവും ഉപയോഗിക്കുന്നു അതിനാൽ ഫലപ്രദമായി ഓരോ യൂണിയനും ഒരു ലോഗരിഥമിക് ടൈം ഓപ്പറേഷനായിരുന്നു മുഴുവൻ ശ്രേണിയും വിനിയോഗിച്ചു ഇപ്പോൾ കൂടുതൽ സങ്കീർണ്ണമായ ഒരു നടപ്പാക്കൽ ഞങ്ങൾ കാണും യൂണിയൻ ഫൈൻഡ് ഡാറ്റാ സ്ട്രക്ച്ചർ ഒരു സെറ്റ് S ന്റെ ഒരു വിഭജനത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുകയും മൂന്ന് പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുക ഒന്ന് നിസ്സാരമായ ഒരു വിഭജനം സൃഷ്ടിക്കുന്ന മെയ്ക്ക് യൂണിയൻ കണ്ടെത്തലാണ് അവിടെ ഓരോ ഘടകങ്ങളും അവരുടേതാണ് ഓരോ മൂലകവും തനിക്കായി പേരുള്ള ഒറ്റ ടേം പാർട്ടീഷനിലാണ് അതിനാൽ പാർട്ടീഷനുകൾക്കും മൂലകങ്ങൾക്കും ഞങ്ങൾ ഒരേ പേരുകൾ ഉപയോഗിക്കുന്നു അതിനാൽ S എന്ന് വിളിക്കപ്പെടുന്ന ഒരു പാർട്ടീഷനിൽ ഓരോന്നും ഓരോ ചെറിയ s തന്നിരിക്കുന്ന ഘടകം ഏത് വിഭജനത്തിന്റേതാണെന്ന് കണ്ടെത്തുകയും യൂണിയൻ രണ്ട് ഘടകങ്ങളോ രണ്ട് പാർട്ടീഷനുകളോ ഒന്നിച്ച് ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു ഓരോ ഘടകവും ഏത് ഘടകത്തിന്റേതാണെന്ന് പറയാൻ അറേ അടിസ്ഥാനമാക്കിയുള്ള നടപ്പാക്കൽ ഘടകം എന്ന അറേ ഉപയോഗിക്കുന്നു ഓരോ ഘടകങ്ങളുടേത് ഏത് ഘടകങ്ങളാണെന്ന് ഞങ്ങളോട് പറയാൻ ഇത് ഒരു പട്ടികയുടെ ഒരു നിര സൂക്ഷിക്കുന്നു അതിനാൽ ഇത് ഒരു തരം റിവേഴ്സ് മാപ്പിംഗ് ആണ് ഓരോ ഘടകത്തിനും k അത് സെറ്റിൽ ഏത് അംഗങ്ങളാണ് ഉൾപ്പെടുന്നതെന്ന് ഞങ്ങളോട് പറയുന്നു ഒടുവിൽ ഇത് ഓരോ ഘടകത്തിന്റെയും വലുപ്പം ട്രാക്ക് ചെയ്യുന്നു കാരണം ഞങ്ങൾ ഘടകങ്ങളെ ലയിപ്പിച്ചത് ഒരിക്കൽ ചെറിയതാക്കുകയും വലിയവയുടെ പേരിൽ ഒരിക്കൽ കൂടി പുനർനിർണയിക്കുകയും ചെയ്തു അതിനാൽ യൂണിയൻ ഫൈൻഡ് ഒരു ഓർഡർ n ഓപ്പറേഷൻ ആയിരുന്നു ഫൈൻഡ് ഒരു ഓർഡർ ഓപ്പറേഷൻ ആയിരുന്നു യൂണിയൻ പ്രവർത്തനത്തിന്റെ അമോർട്ടൈസ്ഡ് സങ്കീർണ്ണത m പ്രവർത്തനങ്ങളുടെ ഒരു ശ്രേണിക്ക് ലോഗ് m ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ വ്യത്യസ്ത റെപ്രസെന്റഷന് ഉണ്ടാകും ഞങ്ങൾ പോയിന്ററുകൾ ഉപയോഗിച്ച് നോഡുകൾ ഉപയോഗിക്കും അതിനാൽ സെറ്റിന്റെ ഓരോ ഘടകങ്ങളും ഇപ്പോൾ ഒരു നോഡായി പ്രതിനിധീകരിക്കും നോഡിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകും അതിന് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന മൂലകവും അതിന്റെ ഘടകത്തിന്റെ ട്രാക്ക് സൂക്ഷിക്കുന്ന ഒരു ലേബൽ ഭാഗവും ഉണ്ടാകും അതിനാൽ അത് ഘടകത്തിലേക്കുള്ള ഒരു സൂചകമാണ് ഇപ്പോൾ ഘടകങ്ങളുടെ പേരുകൾ മൂലകങ്ങളുടെ പേരുകളാണെന്ന് ഓർക്കുക ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഇവിടെ ഒരു പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് j എന്ന പേരുണ്ട് ഈ നോഡ് j എന്ന മൂലകത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും അതിന്റെ ലേബൽ പോയിന്റുകൾ സ്വയം സൂചിപ്പിക്കുന്നു അതിനാൽ ഇത് j എന്നത് ഘടക ഘടകത്തിന്റേതാണെന്ന് പറയുന്നു ഇവിടെ മറുവശത്ത് നമുക്ക് i എന്ന ഘടകം ഉണ്ട് ഈ തോന്നലിലൂടെ നമ്മൾ സ്വയം ചൂണ്ടിക്കാണിക്കുന്ന ആദ്യ നോഡിലേക്ക് പോകുകയും i ഞാൻ ഘടക j യിൽ പെടുന്ന ഈ സെറ്റിലേക്ക് പോകുകയും ചെയ്യുന്നു അതിനാൽ i ഘടകം j യിൽ പെടുന്നു അതിനാൽ മൂലകങ്ങളുടെ പേരുകളും ഘടകങ്ങളുടെ പേരുകളും ഒന്നുതന്നെയാണെന്ന വസ്തുത ഞങ്ങൾ വളരെയധികം ഉപയോഗിക്കുന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്നു അതിനാൽ ഞങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഒരു തരത്തിലാണ് ഞങ്ങൾ നെയിം ഫീൽഡ് മൂലകത്തിന്റെ പേരായി വ്യാഖ്യാനിക്കുന്നു നിങ്ങൾ പോയിന്ററുകൾ പിന്തുടരുമ്പോൾ നാമത്തിന്റെ ഫീൽഡ് ഘടകത്തിന്റെ പേരായി ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു പ്രാരംഭവൽക്കരണമാണ് യൂണിയൻ ഫൈൻഡ് അത് ഓരോ ഘടകവും ഒരേ പേരിലുള്ള ഒരു ഘടകം അടങ്ങിയ ഒരൊറ്റ പദമായി സജ്ജമാക്കും അതിനാൽ ഞാൻ i ഘടകങ്ങളിൽ പെടുന്നു അതിനാൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നോഡ് i ഉണ്ട് തുടർന്ന് k അടങ്ങുന്ന k എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഘടകം സൂചിപ്പിക്കുന്ന ഒരു നോഡ് k ഉണ്ട് ഇതാണ് j അടങ്ങിയിരിക്കുന്ന j അതിനാൽ നമുക്ക് 1 മുതൽ n വരെ അത്തരം ഘടകങ്ങളുണ്ട് അതിനാൽ നമുക്ക് ഓരോന്നിനും അത്തരം ഘടകങ്ങളുണ്ട് അവയിൽ ഓരോന്നിനും ആദ്യ ഘടകത്തിലെ പേരും രണ്ടാമത്തെ ഘടകത്തിൽ തന്നെ ഒരു പോയിന്ററും അടങ്ങിയിരിക്കുന്നു ഒരു നിശ്ചിത കാലയളവിനുശേഷം നോഡ് ലയിപ്പിക്കുമ്പോൾ ഈ പോയിന്ററുകൾ തങ്ങൾക്ക് പകരം ചൂണ്ടിക്കാണിക്കുന്നത് അത് മറ്റ് കാര്യങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കുമെന്ന് ഞങ്ങൾ കാണും ഉദാഹരണത്തിന് ഇവിടെ i j k l എന്നിവ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാകാം ഘടകങ്ങളുടെ പേര് യഥാർത്ഥത്തിൽ j എന്നാണ് ഘടനകൾ പറയുന്നത് അതിനാൽ ഇത് j ഘടകമാണ് അതിൽ i j k l അടങ്ങിയിരിക്കുന്നു അതിനാൽ i മൂലകത്തിന് തന്നെയല്ല മറ്റൊരു നോഡുകളിലേക്കാണ് പോയിന്റർ ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ നിങ്ങൾ ഇത് പിന്തുടരുകയാണെങ്കിൽ അത് സ്വയം ചൂണ്ടിക്കാണിക്കുന്ന j എന്ന മൂലകത്തിലേക്ക് ചൂണ്ടുന്നതായി ഞങ്ങൾ കാണുന്നു അതിനാൽ i ന്റെ ഘടകത്തിന്റെ പേര് j ആണ് അതുപോലെ നമ്മൾ l l പോയിന്റുകൾ i i പോയിന്റ് j മുതലായവയിൽ നിന്ന് ആരംഭിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞങ്ങൾ കാണും നമുക്ക് നോഡിൽ നിന്ന് ആരംഭിച്ച് പാതയിലേക്ക് പോകണം ഇത് ഒരു ട്രീ ആയിരിക്കും അതിനാൽ എല്ലാ പാതകളും റൂട്ട് അവസാനിക്കും റൂട്ട് ഘടകത്തിന്റെ പേരാണ് ഈ ട്രീ കുറച്ചുകൂടി എളുപ്പത്തിൽ നാവിഗേറ്റുചെയ്യാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് പോയിന്ററുകളുടെയും സംഖ്യകളുടെയും ഇനിപ്പറയുന്ന അധിക ശ്രേണികൾ ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം അതിനാൽ ഓരോ നോഡും എവിടെയാണെന്ന് ഞങ്ങൾ ആദ്യം ട്രാക്ക് ചെയ്യും അതിനാൽ നമുക്ക് ഇവിടെ നോഡ് എന്നൊരു അറേ ഉണ്ട് അറേയുടെ ഓരോ ഘടകങ്ങളും ആ മൂലകം അടങ്ങിയ നോഡിലേക്കുള്ള ഒരു പോയിന്ററാണ് അതിനാൽ എൻട്രി i നോഡ് I ഇവ്ടെയാണെന്ന് പറയുന്നു എൻട്രി j നോഡ് j ഇവിടെയാണെന്നും മറ്റും പറയുന്നു അതിനാൽ അതിനനുസൃതമായി ഒരു എൻട്രി ഉണ്ടാകും അത് നോഡ് k ഇവിടെയാണെന്നും നോഡ് l ഇവിടെയാണെന്നും അങ്ങനെയാണെന്നും പറയുന്നു അതിനാൽ ഞങ്ങളുടെ യഥാർത്ഥ സെറ്റിലെ എല്ലാ മൂലകങ്ങൾക്കും ഈ നോഡ് അറേ മുതൽ ട്രീയിലെ യഥാർത്ഥ നോഡ് വരെ ഒരു പോയിന്റർ ഉണ്ടാകും ട്രീ സെറ്റ് ഘടകങ്ങളുടെ സെറ്റ് ആയിരിക്കുമ്പോൾ ആ മൂല്യം സ്ഥിതിചെയ്യുന്ന യഥാർത്ഥ നോഡ് അപ്പോൾ നമുക്ക് അറിയണം നിലവിൽ സജീവമായ ഘടകങ്ങൾ അതിനാൽ ഇവിടെ ഈ പ്രത്യേക വിഭാഗത്തിൽ i j k l j യുടെ ഘടകമാണ് i എന്നതിന് ഒരു ഘടകം ഉണ്ടായിരിക്കും i ഞാൻ k ഒരു ഘടകമായി ഉപയോഗം ആരംഭിക്കുമ്പോൾ ഘടകം l ആകാനുള്ള ഉപയോഗം പക്ഷേ ഈ പേരുകൾ ഇപ്പോൾ ഉപയോഗത്തിലില്ല കാരണം ഈ ഘടകങ്ങൾക്ക് j യുമായി നേരിട്ടോ അല്ലാതെയോ ലയിപ്പിച്ചതാണ് i j k l എന്നിവയിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ j യുടെ റൂട്ട് j എന്ന ഘടകം j അടങ്ങിയ നോഡാണ് മറ്റ് എല്ലാ ലേബലുകൾക്കും i j k l ഞങ്ങൾ ഞാൻ പറയുന്നു k n l i എന്നൊരു ഘടകവുമില്ല k എന്ന ഘടകമില്ല അതിനാൽ നമുക്ക് ഒരു ശൂന്യത മാത്രമേയുള്ളൂ അതേപോലെ ഈ കാര്യങ്ങൾക്ക് റൂട്ടും ഇല്ലാ അതിനാൽ നിങ്ങൾക്ക് ഈ ഘടകത്തിന്റെ റൂട്ട് കണ്ടെത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ നോഡ് i ലേക്ക് പോകുക തുടർന്ന് അതിലേക്ക് പോകുക അവസാനമായി വലുപ്പമനുസരിച്ച് ലയിപ്പിക്കുന്നതിന് മുമ്പത്തെപ്പോലെ സമാനമായ ഒരു തന്ത്രം ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ ഓരോ ഘടകത്തിന്റെയും വലുപ്പം ഞങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കും അതിനാൽ ഈ ഘടകങ്ങളുടെ വലുപ്പം i j k l 4 ആണെന്ന് ഇവിടെ പറയുന്നു കാരണം നിലവിൽ 4 ഘടകങ്ങൾ ഉണ്ട് അതിനാൽ ഈ മൂലകം അടങ്ങിയിരിക്കുന്ന സെറ്റിൽ ഓരോ മൂലകത്തെയും സൂചിപ്പിക്കുന്ന ഈ നോഡ് പോയിന്റർ ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങളുടെ പാർട്ടീഷനിൽ നിലവിൽ സജീവമായ ഓരോ ഘടകത്തിനും നമ്മോട് പറയുന്ന ഒരു റൂട്ട് പോയിന്റർ ഉണ്ട് അത് ആ പാർട്ടീഷന്റെ റൂട്ട് ആണ് തുടർന്ന് ഓരോ ഘടകത്തിന്റെയും വലുപ്പം പറയുന്ന വലുപ്പം നമുക്ക് ഉണ്ട് ഞങ്ങൾ യൂണിയൻ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ചെറിയവയെ വലിയതിലേക്ക് ലയിപ്പിക്കുന്നത് ഞങ്ങൾ ചെയ്യുന്നു അതിനാൽ ഇവിടെ നമുക്ക് രണ്ട് ഘടകങ്ങളുണ്ട് നമുക്ക് j j k m എന്നീ ഘടകങ്ങളുണ്ട് ഞങ്ങൾക്ക് i l എന്നീ ഘടകങ്ങളുള്ള i ഉണ്ട് അതിനാൽ ഇപ്പോൾ i j എന്നിവയുടെ സംയോജനം നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ആദ്യം എവിടെയെങ്കിലും i ന്റെ വലുപ്പം 2 ഉം j യുടെ വലുപ്പവും 3 എന്ന് രേഖപ്പെടുത്തിയിരിക്കും അതിനാൽ ഇത് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട് i j യിൽ ലയിപ്പിക്കുക ഇതിന്റെ അർത്ഥം ഞാൻ സ്ട്രിങ്ങിന്റെ ഒരു റൂട്ട് ആണെന്ന് പറയുന്ന ഈ അറ്റം നശിപ്പിക്കപ്പെടണം പകരം നമ്മൾ ഇതുപോലെ ഒരു ലിങ്ക് ഇട്ട് ഈ രണ്ട് ട്രീസും ഒരു വലിയ ട്രീയും ലയിപ്പിക്കണം തത്ഫലമായുണ്ടാകുന്ന ട്രീയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമുക്ക് തീർച്ചയായും j എന്ന ഒറ്റ ഘടകം ഉണ്ട് i ന്റെ വലുപ്പവും j യുടെ മുഴുവൻ വലിപ്പവും ആയി j യുടെ വലുപ്പം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു അതിനാൽ ഇപ്പോൾ 3 ന് പകരം 5 എന്ന് പറയുകയും ഈ മുഴുവൻ പ്രവർത്തനവും ഒരു ഓർഡർ 1 ഓപ്പറേഷൻ ആണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും കാരണം രണ്ട് ഘടകങ്ങളുടെ വലുപ്പം കണ്ടെത്താനും രണ്ട് ഘടകങ്ങളുടെ റൂട്ടുകൾ കണ്ടെത്താനും ഏതെന്ന് തീരുമാനിക്കാനും ഞങ്ങൾ ഒരു നിശ്ചിത ഘട്ടങ്ങൾ എടുക്കുന്നു ഞാൻ j ലേക്ക് ചൂണ്ടിക്കാണിക്കണോ അതോ j പോയിന്റിലേക്ക് i പോയിന്റ് ചെയ്യണോ അതിനാൽ ഇത് ഒരു ഓർഡർ 1 ഓപ്പറേഷൻ ആണ് കാരണം ഞങ്ങൾക്ക് വലുപ്പ വിവരം ഉള്ളതിനാൽ വലുപ്പം പറയുന്നു അതിന്റെ വലുപ്പം കണ്ടെത്താൻ ഞങ്ങൾക്ക് ഘടകത്തിലൂടെ പോകാനാകില്ല ഞങ്ങൾക്ക് ഉണ്ട് ഈ റൂട്ട് വിവരങ്ങൾ രണ്ട് പാർട്ടീഷനുകളുടെ റൂട്ടുകൾ എവിടെയാണെന്ന് നേരിട്ട് പറയുന്നു അതിനാൽ നമ്മൾ നേരിട്ട് ആ സ്ഥലത്തേക്ക് പോയി ഒരു പോയിന്റ് മറ്റൊന്നിലേക്ക് അല്ലെങ്കിൽ തിരിച്ചും പറയണം മറുവശത്ത് കണ്ടെത്തുക നമ്മൾ പരിശോധിക്കേണ്ട മൂല്യത്തിൽ നിന്ന് ആരംഭിക്കുകയും അവയോട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിനാൽ നിങ്ങളെ കണ്ടെത്തുമെന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഈ നോഡ് അറേ ഉണ്ടായിരിക്കുമെന്ന് ഓർക്കുക അതിനാൽ നിങ്ങളുടെ നോഡ് ഇവിടെ അടങ്ങിയിരിക്കുന്ന നോഡ് ഇവിടെയാണെന്ന് പറയും അതിനാൽ ഞങ്ങൾ അവിടെ ആരംഭിക്കുകയും തുടർന്ന് ഈ പാത പിന്തുടരുകയും ചെയ്യും അതിനാൽ ഞങ്ങൾ ഈ പോയിന്റുകൾ ഇവിടെയും ഈ പോയിന്റുകൾ ഇവിടെയും ഇതും ഇവിടെയും അവസാനമായി ഒരു നോഡിലെത്തുമ്പോൾ നാമും അത് തന്നെയാണത് അപ്പോൾ നമ്മൾ പറയും അത് j ന് തുല്യമാണ് അതിനാൽ നോഡിൽ നിന്ന് റൂട്ടിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്ന പാതയ്ക്ക് ആനുപാതികമായി ഇത് സമയമെടുക്കും ഇപ്പോൾ ഓർക്കുക തുടക്കത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു പാത ഉണ്ടായിരുന്നു അതിനാൽ തുടക്കത്തിൽ എല്ലാ നോഡിനും 1 നീളമുള്ള ഒരു പാതയുണ്ട് അത് ഒരേ റൂട്ട് ആണെന്ന് അയച്ചു ഇപ്പോൾ എന്തുകൊണ്ടാണ് പാത്ത് മാറ്റുന്നത് അത് മാറുന്നത് യൂണിയൻ പ്രവർത്തനം കാരണം ഓരോ തവണയും നമ്മൾ ഒരു യൂണിയൻ 1 നോഡ് ചെയ്യുമ്പോൾ അത് സ്വയം ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ മറ്റൊരു നോഡിലേക്കും അതിന്റെ താഴെയുള്ള എല്ലാം 1 ആയി വർദ്ധിക്കുന്നു അതിനാൽ j എന്ന ലേബൽ മാറുമ്പോഴെല്ലാം പാത 1 വർദ്ധിക്കുന്നു നിങ്ങൾ j ൽ നിന്ന് j ൽ നിന്ന് റൂട്ടിലേക്ക് പോകാൻ പോകുകയാണെങ്കിൽ ഓരോ തവണ j ലേബൽ മാറ്റുമ്പോഴും ഇതിന് എത്ര സമയം എടുക്കും പക്ഷേ മുമ്പത്തെപ്പോലെ ഞങ്ങൾ ഘടക വലുപ്പം ഇരട്ടിയാക്കുന്നു ഏത് സമയത്താണ് ഞങ്ങൾ ലയിക്കുന്നത് അതിനാൽ ഏത് സമയത്താണ് ഞങ്ങൾ ഒരു യൂണിയൻ ചെയ്യുന്നത് തുടർന്ന് j അടങ്ങിയ ലേബലിൽ മുമ്പ് ചെയ്തതുപോലെ നിരവധി ഘടകങ്ങൾ ക്വിസുകൾ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ അവസാനമായി നിങ്ങളുടെ ഗ്രാഫിലെ എല്ലാ നോഡുകളും ഒരൊറ്റ ഘടകമായി സംയോജിപ്പിക്കുക എന്നതാണ് ഏറ്റവും മികച്ചത് പരമാവധി ഘടക വലുപ്പം n ആണ് അതിനാൽ ഞങ്ങൾ ഒരു ഘടകം 1 വലുപ്പത്തിലേക്ക് ആരംഭിക്കുന്നു തുടർന്ന് ഞങ്ങൾ അതിനെ 2 ആയി ഇരട്ടിയാക്കുകയും 4 ആയി ഇരട്ടിയാക്കുകയും ചെയ്യുന്നു ഒടുവിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും മിക്ക ലോഗ് n സ്റ്റെപ്പുകളിലുമാകാം അതിനാൽ j എന്ന ലേബൽ മാറ്റാവുന്ന n ടൈംസ് ലോഗ് ചെയ്യുക ഓരോ തവണയും ലേബൽ മാറുമ്പോൾ ഞങ്ങൾ മറ്റൊരു ഘടകത്തിന്റെ റൂട്ട് എടുക്കുന്നതിനാൽ ഇവിടെ അറ്റാച്ചുചെയ്യുന്നു പാത്ത് ലിങ്ക് 1 വർദ്ധിക്കുന്നു പാതയുടെ ദൈർഘ്യം 1 പ്ലസ് 1 പ്ലസ് 1 ലോഗ് n ടൈംസ് വർദ്ധിക്കുന്നു അതിനാൽ പാത മിക്കവാറും ലോഗ് n ആണ് അതിനാൽ ഈ വിശകലനത്തിലൂടെ നമുക്ക് അത് കാണാൻ കഴിയും കാരണം ഞങ്ങൾ ചെറിയ ഘടകങ്ങളെ ലയിപ്പിക്കുന്നതിനാലും വലിയ ഘടകങ്ങളെ കണ്ടെത്തുന്നതിനും ലോഗ് n ടൈം എടുക്കും മുമ്പത്തെ ഡാറ്റാ സ്ട്രക്ച്ചറിൽ അറേകളുള്ള മുമ്പത്തെ ഡാറ്റ സ്ട്രക്ച്ചറിൽ ഞങ്ങൾ ഇപ്പോൾ ഇരട്ടയായിരിക്കുന്ന ഒരു സ്ഥലത്താണ് അതിനാൽ ഒരു കോൺസ്റ്റന്റ് ടൈം പ്രവർത്തനമാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ആ യൂണിയൻ ലോഗ് n ആണെന്ന് സജ്ജീകരിച്ച അമ്മോർടൈസ്ഡ് വിശകലനം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ പോയിന്റർ ബേസ് ഉണ്ട് യൂണിയൻ ഓർഡർ 1 ആണെന്ന് പറയുന്നു പക്ഷേ ഫൈൻഡ് ഓർഡർ ലോഗ് എൻ ആണ് അതിനാൽ അടിസ്ഥാനപരമായി സമാനമായ സ്ട്രക്ച്ചർ ആണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഇത് രണ്ട് പ്രവർത്തനങ്ങളുടെ സങ്കീർണ്ണതയെ ഞങ്ങൾ വിപരീതമാക്കുന്നുവെന്ന് സജ്ജമാക്കുന്നു ഇപ്പോൾ നമുക്ക് കൂടുതൽ സമർത്ഥമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അത് മാറുന്നു അത് കണ്ടെത്തുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നു അതിനാൽ യൂണിയനുവേണ്ടി നമുക്ക് ഓർഡർ തീർച്ചയായും നിലനിർത്താം എന്നാൽ ഓർഡർ ലോഗ് n യഥാർത്ഥത്തിൽ കുറയ്ക്കാം അതിനാൽ ഒരിക്കൽ ഞങ്ങൾ ഈ പാതയിൽ നിന്ന് j ലേക്ക് സഞ്ചരിച്ചുവെന്നതാണ് പ്രധാനം ഞങ്ങൾക്കറിയാം u അടങ്ങിയിരിക്കുന്ന ഘടകം അടങ്ങിയിരിക്കുന്ന പാത j ആണെന്ന് നിങ്ങൾക്ക് മാത്രമല്ല l അടങ്ങിയിരിക്കുന്ന ഘടകം നിങ്ങൾക്ക് അറിയാം i അടങ്ങിയിരിക്കുന്ന ഘടകം j ആണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ വിവരങ്ങൾ ഉപയോഗിക്കാത്തത് ഓരോ തവണ തിരിച്ചെത്തുമ്പോഴും വീണ്ടും കണക്കുകൂട്ടരുത് അതിനാൽ ഞങ്ങൾ എന്തുചെയ്യും ഞങ്ങൾ പതിവ് j കണ്ടെത്താം അതിനാൽ ഞങ്ങൾ പാതയിലൂടെ സഞ്ചരിക്കും തുടർന്ന് ഞങ്ങൾ jയിൽ നിന്ന് റൂട്ടിലേക്ക് മടങ്ങുകയും ഇപ്പോൾ ഇത് j ആണെന്ന് എനിക്കറിയാമെന്ന് പറയുകയും ചെയ്യും അതിനാൽ ബൈപാസ് മുഴുവനായും എന്നെ നേരിട്ട് jയിലേക്ക് ചൂണ്ടിക്കാണിച്ചേക്കാം അതിനാൽ മുമ്പത്തെ കാര്യങ്ങൾ ഞാൻ നീക്കംചെയ്തു ഞാൻ ഈ അറ്റം നീക്കം ചെയ്യുകയും നേരിട്ട് പോകുകയും ചെയ്യും അതിനാൽ എനിക്ക് ഈ അഗ്രം നേരിട്ട് നീക്കംചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറയും അതിനാൽ ഓരോ ഘട്ടത്തിലും ഞാൻ നീക്കംചെയ്യാം അവസാനം റൂട്ടിന് തൊട്ടുതാഴെയുള്ള ഒരെണ്ണത്തിൽ എത്തുക അതിനാൽ അടിസ്ഥാനപരമായി ഇപ്പോൾ ഞാൻ ഈ പാതയിലൂടെ ഒരു പരന്ന ട്രീ കൈവരിക്കും ഇത് ഉപയോഗിക്കുന്ന ഈ പാത ഇതുപോലെയാണ് ഇത് ഇതുപോലെ പരന്നതല്ല അതിനാൽ എല്ലാ ചിന്തകൾക്കും ഇപ്പോൾ പാതയിലേക്ക് നേരിട്ട് പ്രവേശനമുണ്ട് അതിനാൽ ഞങ്ങൾ ട്രീയെ പരത്തുന്നു അതിനാൽ നിങ്ങൾക്ക് ചിത്രപരമായി നോക്കണമെങ്കിൽ ഞാൻ ഇത് ആരംഭിക്കുന്നു എന്നിട്ട് ഞാൻ നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഈ അറ്റം u മുതൽ l വരെ u മുതൽ j വരെ ഒരു അറ്റമായി മാറ്റും പിന്നെ ഞാൻ l മുതൽ i വരെയുള്ള എഡ്ജസ് l മുതൽ j വരെ നേരിട്ട് മാറ്റും അതിനാൽ ഇപ്പോൾ ഞാൻ ഈ പരന്ന ട്രീയിൽ അവസാനിക്കുന്നു ഇപ്പോൾ തുടർന്നുള്ള നോട്ടം ഞാൻ u നിന്നും l ൽ നിന്നും ഒരു ചുവട് മാത്രമേ എടുക്കൂ ആദ്യ കണ്ടെത്തലിന് ലോഗ് n ടൈം എടുക്കും അതിന് കോൺസ്റ്റന്റ് ടൈം എടുക്കും അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണിക്കാൻ കഴിയും ഇത് എളുപ്പമുള്ള കണക്കുകൂട്ടലല്ല അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ശ്രമിക്കാനും ഹാജരാകാനും പോകുന്നില്ല എന്നാൽ ഇതിനുശേഷം മൊത്തത്തിലുള്ള ലോഗ് n m ലോഗ് n കോസ്റ്റ് m ലോഗ് m എന്നിവ ലഭിക്കുന്നതിന് മുമ്പത്തെ അറേ അടിസ്ഥാനമാക്കിയുള്ള നിർവ്വഹണത്തിനായി ഞങ്ങൾ ഒരു അമോർട്ടൈസ്ഡ് വിശകലനം നടത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഇവിടെ മൊത്തം n കണ്ടെത്തലുകൾ യഥാർത്ഥത്തിൽ n ൽ ഏതാണ്ട് രേഖീയമായ എന്തെങ്കിലും എടുക്കുമെന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കാണിക്കാനാകും N ലെ ലീനിയർ യഥാർത്ഥത്തിൽ n ന്റെ പ്രവർത്തന സമയത്തെ n ആൽഫ എന്നും ഈ n ന്റെ ആൽഫ എന്നത് അക്കർമാൻ ഫംഗ്ഷന്റെ വിപരീതമായ ഒന്നാണ് അക്കർമാൻ ഫംഗ്ഷൻ വളരെ വേഗത്തിൽ വളരുന്ന ഒന്നാണ് അതിനാൽ ഇത് ഏത് വിശദീകരണത്തേക്കാളും വേഗത്തിൽ വളരുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇത് വിപരീത അക്കർമാന്റെ ലോഗ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്കർമാന്റെ ലോഗാണ് അതിനാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന് വിപരീതം ലോഗ് ആണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ ലോഗ് n ഞങ്ങൾക്ക് നല്ലതാണ് അത് പതുക്കെ ലോഗ് 1000 ആണ് 10 ബില്യൺ ലോഗ് 20 1 മില്ല്യൺ 20 1 ബില്യൺ ലോഗ് 30 ഇത് വളരെ പതുക്കെ ആയിരുന്നു കാരണം മറ്റ് ദിശകളിൽ വേഗത്തിൽ വളരുന്നു 2 മുതൽ 10 വരെ പവർ 2 മുതൽ 20 വരെ പവർ 2 എന്നിവ 30 ന്റെ പവർ വരെ വളരെ വേഗത്തിൽ പോകുന്നു അതുപോലെ തന്നെ ആക്കർമാൻ വളരെ വേഗത്തിൽ പോകുന്നു അതിനാൽ നിങ്ങൾ അനുബന്ധ ലോഗ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഏത് മൂല്യത്തിനാണ് ആക്കർമാൻ ഇൻപുട്ടുകൾ വളരെ സാവധാനത്തിൽ വളരുന്നു വാസ്തവത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാനാകുന്ന ഒരു പ്രായോഗിക കമ്പ്യൂട്ടിംഗ് പ്രശ്നത്തിൽ നിങ്ങൾ നേരിടാൻ സാധ്യതയുള്ള n ന്റെ ഏത് മൂല്യത്തിനും n ന്റെ ആൽഫ പരമാവധി 4 ആണെന്ന് അവകാശപ്പെടുന്നു ഇത് ഓർഡർ n പോലെയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകും കാരണം n ന്റെ ആൽഫ 4 ന് തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഇത് 4 n പോലെയാണ് അതിനാൽ പാത്ത് കംപ്രഷൻ നമുക്ക് ലഭിക്കുന്ന n log n ൽ നിന്ന് ഗണ്യമായ കുറവ് നൽകുന്നു രേഖീയമായ ഒന്നിലേക്ക് പാത കംപ്രഷൻ ഇല്ലാതെ അതിനാൽ ഇപ്പോൾ ഈ സൂചക അടിത്തറയിലേക്ക് നീങ്ങുന്നതിലൂടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പെരുമാറിയ കൂടുതൽ നേരിട്ടുള്ള അറേ അടിസ്ഥാനമാക്കിയുള്ള നടപ്പാക്കലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ ഗണ്യമായ ലാഭം നേടി അതിനാൽ സൂചകങ്ങളുള്ള നോഡുകൾ ഉപയോഗിച്ച് ഞങ്ങൾ യൂണിയൻ കണ്ടെത്തൽ നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ചെയ്യാൻ കഴിയും യൂണിയൻ കണ്ടെത്തുന്നതിനും രേഖീയ സമയം കണ്ടെത്തുന്നതിനും പ്രാരംഭ സെറ്റിൽ യൂണിയൻ ഇപ്പോൾ ഒരു ഓർഡർ 1 പ്രവർത്തനമായി മാറുന്നു കാരണം ഞങ്ങൾ രണ്ട് വേരുകൾ നേരിട്ട് ആക്സസ് ചെയ്യുകയും ഈ ചെറിയ റൂട്ട് വലിയ റൂട്ട് ഉപയോഗിച്ച് ലയിപ്പിക്കുകയും ഇപ്പോൾ നിങ്ങൾ ഈ പാത കംപ്രഷൻ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ടെത്തുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഇത് n ഓപ്പറേഷനുകൾക്ക് n ലോഗ് n ആണെങ്കിലും n ഓപ്പറേഷനുകൾക്ക് n ആൽഫ n ആണ് ഞങ്ങൾ പാത്ത് കംപ്രഷൻ ഉപയോഗിക്കുമ്പോൾ